തിരികെ സ്വാഗതം കുറഞ്ഞ പവർ ഡിസൈനിനുള്ള വിവിധ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ഞങ്ങൾ തുടരുന്നു ഗേറ്റുകളുടെ തലത്തിലോ RTL ലെവൽ ഡിസൈൻ എന്ന് വിളിക്കപ്പെടുന്നവയിലോ ഉപയോഗിക്കാൻ കഴിയുന്ന ചില രീതികളോ സാങ്കേതികതകളോ ഞങ്ങൾ കണ്ടു നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ആർക്കിടെക്ചർകളും ഉയർന്ന തലത്തിലുള്ള സാങ്കേതികതകളും ഞങ്ങൾ നോക്കും കഴിഞ്ഞ ദിവസം സംസാരിച്ചിടത്തുനിന്നും നമ്മൾ ചർച്ച തുടരുന്നു കൂടാതെ ഡിസൈനിലെ പവർ കൺസംപ്ഷൻ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് ചില സാങ്കേതിക വിദ്യകൾ നോക്കുക മറ്റ് ലോ പവർ ഡിസൈൻ ടെക്നിക്കുകൾ ഞങ്ങൾ ഇവിടെ ചില ആർക്കിടെക്ചർ തലത്തിലുള്ള അപ്പ്രോച്ച്സ് നോക്കുന്നു ആർക്കിടെക്ചർ ലെവൽ അപ്പ്രോച്ച് കാണുക എന്നതിനർത്ഥം നമുക്ക് ഗേറ്റുകളും ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഉള്ള വിശദാംശങ്ങളുടെ തലത്തിലേക്ക് നോക്കുന്നില്ല ഞങ്ങൾ അൽപ്പം ഉയർന്ന തലത്തിലാണ് നോക്കുന്നത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവലിൽ ആയിരിക്കാം ഞങ്ങൾക്ക് മൾട്ടിപ്ലയറുകൾ ഉണ്ട് ആഡറുകൾ ഉണ്ട് ഞങ്ങൾക്ക് ഒരു പൈപ്പ്ലൈൻ ഉണ്ട് ആ തലത്തിലാണ് ഞങ്ങൾ ആഗോളതലത്തിൽ ചിന്തിക്കുന്നത് ഞങ്ങൾ ഗേറ്റുകളുടെ തലത്തിലേക്ക് നോക്കുന്നില്ല അതിനാൽഅതേസമയം വിവിധ ആളുകളും ചില രീതികളും അത്തരം നിരവധി ആർക്കിടെക്ചർ ലെവൽ അപ്പ്രോച്ച്സ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ പിന്നിലെ അടിസ്ഥാന ആശയം ഞങ്ങൾ വിശദീകരിക്കും ഈ രീതികൾ പവർ കുറയ്ക്കുന്നതിന് വീണ്ടും ഉപയോഗിക്കാം അവരിൽ ചിലർ പാരലലിസം പൈപ്പ്ലൈനിംഗ് pipelining റീടൈമിംഗ് ബസ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്ന ഒന്ന് എന്നിവ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ സാങ്കേതികതകളിൽ പലതിനും ചില അധിക ഹാർഡ്വെയർ ആവശ്യമാണെന്ന് നിങ്ങൾ കാണും നിങ്ങൾ ഏരിയയുടെയോ അല്ലെങ്കിൽ ഗേറ്റുകളുടെയോ ട്രാൻസിസ്റ്ററുകളുടെയോ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെലവ് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇത് തികച്ചും സ്വീകാര്യമാണ് പവർ കുറയ്ക്കൽ പരമപ്രധാനമായി മാറിയിരിക്കുന്നു പവർ റിഡക്ഷൻ ചിലപ്പോൾ പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നു അതിനുശേഷം മാത്രമേ പ്രകടനവും കാര്യങ്ങളും പോലുള്ള മറ്റ് സവിശേഷതകൾ വരൂ കാരണം നിങ്ങൾ പെട്ടെന്ന് മാർക്കറ്റിൽ പോയി ആരെങ്കിലും ലാപ്ടോപ്പ് വിൽക്കുന്നത് കണ്ടാൽ അത് ഒരിക്കൽ ചാർജ് ചെയ്താൽ 15 മണിക്കൂർ ബാറ്ററി അതിജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ മതിപ്പുളവാക്കും അതിനാൽ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ദ്വിതീയമായി മാറും കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് ഈ രീതികൾ നോക്കാം അവ എന്തൊക്കെയാണ് അതിനാൽ പാരല്ലെലിസം ഉപയോഗിച്ച് ഇവ വളരെ അഡ്ഹോക് അപ്പ്രോച്ച്സ് ആണെന്ന് കാണുക അതിനാൽ വിവിധ ലളിതമായ ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾ ഈ ആശയം ചിത്രീകരിക്കുന്നു നമുക്ക് ഒരു മൾട്ടിപ്ലയർ എടുക്കാം ആശയം വളരെ ലളിതമാണ് ഒരു പ്രോസസറിൽ എനിക്ക് ഒരു ഗുണനം ഉണ്ടെന്ന് കരുതുക ഗുണിതം 2 സംഖ്യയെ ഗുണിക്കണം എന്ന് കരുതുക എനിക്ക് ആവശ്യമുള്ള ത്രൂപുട്ടിന്റെ ചില ആവശ്യകതകൾ ആവശ്യമാണ് ഉദാഹരണത്തിന് ടി സമയത്തിനുള്ളിൽ കുറച്ച് n എണ്ണം ഗുണനം നടത്തണം ഇതാണ് എന്റെ ആവശ്യം ഞാൻ ഒരു DSP പ്രൊസസർ DSP processor നിർമ്മിക്കുകയാണെന്ന് കരുതുക അത് തത്സമയം വരുന്ന ചില ഇമേജ് ഓഡിയോകൾ പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലുകളിൽ ചില ഓപ്പറേഷൻസ് കംപ്യുട്ട് ചെയ്യുന്നു ഒരു യൂണിറ്റ് സമയത്തിനോ ഒരു സമയത്തിനകം T നടപ്പിലാക്കേണ്ട ഗുണന പ്രവർത്തനങ്ങളുടെ എണ്ണം എന്താണെന്ന് എനിക്കറിയാം അതിനാൽ ഡിലെ എനിക്കറിയാം ഇപ്പോൾ എനിക്ക് നിരവധി ഡിസൈൻ ബദലുകൾ പര്യവേക്ഷണം ചെയ്യാൻ കഴിയും എനിക്ക് വേണ്ടത്ര വേഗതയുള്ള ഒരു മൾട്ടിപ്ലയെർ ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും അതിനു പ്രതീക്ഷിക്കുന്ന ത്രൂപുട്ട് നിലനിർത്താൻ കഴിയും അതിനാൽ ഈ ഫാസ്റ്റ് മൾട്ടിപ്ലയർ കുറച്ച് ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നു നമുക്ക് എഫ് അല്ലെങ്കിൽ എഫ് റഫറൻസ്എന്ന് പറയാം ഇപ്പോൾ ഞാൻ പറയുന്നു നമുക്ക് ഇതുപോലൊന്ന് ചെയ്യാംമൾട്ടിപ്ലയറിന്റെ എണ്ണം കൂട്ടാം ആശയം വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് അത്ര വിഷമിക്കേണ്ടതില്ല കാരണം ഇക്കാലത്ത് നമുക്ക് ചിപ്പിൽ കൂടുതൽ ഹാർഡ്വെയർ ഇടാം അത് ഇപ്പോൾ വളരെ എളുപ്പമാണ് അതിനാൽ ഒന്നിന് പകരം നമുക്ക് 2 മൾട്ടിപ്ലയർ ഉപയോഗിക്കാം കൂടാതെ 2 മൾട്ടിപ്ലയർകൾക്കിടയിൽ നമ്മുടെ ലോഡ് പങ്കിടാം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഫ്രീക്വൻസി പകുതിയായി കുറയ്ക്കുന്നു നേരത്തെ നമ്മൾ ടൈം ഡെൽറ്റയിൽ ഓരോ ഗുണനവും നടത്തുന്നു ഇപ്പോൾ ഈ ഓരോ മൾട്ടിപ്ലയറും ടൈം ഡെൽറ്റയിൽ 2 കൊണ്ട് ഗുണനം ചെയ്യും എന്നാൽ 2 മൾട്ടിപ്ലയർ ഉള്ളതിനാൽ മൊത്തം ത്രൂപുട്ട് ഇപ്പോഴും ഡെൽറ്റ ആയിരിക്കും കാരണം ഈ സമയ ഡെൽറ്റയിൽ നിങ്ങൾ 2 ഗുണനങ്ങൾ പൂർത്തിയാക്കുകയാണ് എന്നാൽ നിങ്ങൾ ഫ്രീക്വൻസി പകുതിയായി കുറയ്ക്കുന്നതിനാൽ പവറിന്റെ ആഘാതം വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരിക്കും അതിനാൽ മൊത്തത്തിലുള്ള പവർ ഡെസിപ്പേഷൻ കുറയും ഇതാണ് ആശയം ഞങ്ങൾ സൂചിപ്പിച്ചതെന്തും ഇവിടെ എഴുതിയിരിക്കുന്നു ഈ പകുതിക്ക് പകരം ഞാൻ സൂചിപ്പിച്ചു ഒരു ഫ്രീക്വൻസി എഫ് റഫറിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിപ്ലയറിന് പകരം ഞങ്ങൾ 2 മൾട്ടിപ്ലയർ ഉപയോഗിക്കുന്നു അങ്ങനെ ആവർത്തിക്കുകയും അവ ക്ലോക്ക് ഫ്രീക്വൻസിയുടെ പകുതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിനാൽ മൊത്തത്തിലുള്ള ത്രൂപുട്ട് സ്വാഭാവികമായും അതേപടി നിലനിൽക്കും കൂടാതെ 2 മൾട്ടിപ്ലയറുകളിൽ നിന്ന് മാറിമാറി ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു മൾട്ടിപ്ലക്സർ ഔട്ട്പുട്ട് വശം ഉണ്ടാകും കൂടാതെ ഫ്രീക്വൻസി എഫ് റഫറിൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നു ഇതുപോലുള്ള ഒന്ന് ഇതാണ് എന്റെ യഥാർത്ഥ ഡിസൈൻ അതിനാൽ ഞങ്ങൾ 16 ബൈ 16 മൾട്ടിപ്ലയർ അനുവദിച്ചിടത്ത് A B എന്നീ 2 നമ്പറുകൾ വരുന്നു രജിസ്റ്ററുകളിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ അവ f ref ന്റെ ഫ്രീക്വൻസിയിൽ ക്ലോക്ക് ചെയ്തു അതിനാൽ എഫ് റഫറൻസിൽ 1 പ്രോഡക്റ്റ് ടൈം 1 ൽ റിസൾട്ട് ജനറേറ്റ് ചെയ്തു എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾ 2 മൾട്ടിപ്ലയറുകൾ ഉപയോഗിക്കുന്നു അവയെ വേർതിരിക്കുന്ന രജിസ്റ്ററുകൾ അവ ക്ലോക്ക് ചെയ്യുന്നത് പകുതി ഫ്രീക്വൻസിയുള്ള ഒരു ക്ലോക്ക് ആണ് അവയിലൊന്ന് ഞങ്ങൾ ക്ലോക്കിന്റെ ലീഡിങ് എഡ്ജിൽ ലോഡുചെയ്യുന്നു മറ്റൊന്ന് ക്ലോക്കിന്റെ ഫാളിങ് എഡ്ജിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഓരോ ക്ലോക്കിലും 2 സെറ്റ് ഡാറ്റ വിതരണം ചെയ്യുന്നു അങ്ങനെ അവരിൽ ഒരാൾ ഇവിടെ ഫീഡ് ചെയ്യുകയായിരുന്നു മറ്റുള്ളവർ ഇവിടെ ഫീഡ് ചെയ്യുകയായിരുന്നു കാരണം ഈ 2 മൾട്ടിപ്ലയർ ഇപ്പോൾ മന്ദഗതിയിലാണ് ഡാറ്റ ഒരു എഫ് റഫർ ബൈ 2ൽ കൊണ്ട് വരുന്നു അതിനാൽ ഇൻപുട്ട് ഡാറ്റ ട്രാന്സിഷൻസും മന്ദഗതിയിലാണ് സംഭവിക്കുന്നത് അതിനാൽ ഇവിടെയും പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് പോലെ ട്രാന്സിഷൻസിന്റെ എണ്ണം മന്ദഗതിയിലായിരിക്കും ഔട്ട്പുട്ട് ഭാഗത്ത് വീണ്ടും നിങ്ങൾ പ്രോഡക്റ്റ് ലീഡിങ് എഡ്ജിൽ നിന്ന് ഒന്ന്ഫാളിങ് എഡ്ജിൽ നിന്ന് ഒന്ന് ഇതിൽ നിന്ന് ഒന്ന് എന്നിവ പുറത്തെടുക്കുന്നു അതിനാൽ അന്തിമ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട് സർക്യൂട്ടിന്റെ ത്രൂപുട്ട് അതേപടി തുടരുന്നു എന്നാൽ ഇൻഡിവിജുവൽ മൾട്ടിപ്ലയറുകളെ സംബന്ധിച്ചിടത്തോളം ട്രാന്സിഷൻസിന്റെ എണ്ണം വളരെ കുറവാണ് ആവറേജ് പവർ കൺസംപ്ഷൻ കുറവായിരിക്കും ഇതാണ് ഈ അപ്പ്രോച്ചിലെ അടിസ്ഥാന ആശയം രണ്ടാമത്തെ ആശയം പൈപ്പ്ലൈനിംഗ് ഉൾപ്പെടുന്നു അടിസ്ഥാന ആശയങ്ങൾ മറന്നേക്കാവുന്നവർക്കായി പൈപ്പ്ലൈനിംഗ് എന്ന ആശയം ഞാൻ ഓർമിപ്പിക്കുകയോ അവലോകനം ചെയ്യുകയോ ചെയ്യാം അതിനാൽ ഇതിലൂടെ കടന്നുപോകുന്നതിന് മുമ്പ് പൈപ്പ്ലൈനിംഗ് എന്ന അടിസ്ഥാന ആശയം ഞാൻ വിശദീകരിക്കുകയാണ് എനിക്ക് കുറച്ച് സമയമെടുക്കുന്ന ഒരു കംപ്യുറ്റേഷൻ ഉണ്ടെന്ന് കരുതുക അത് ടി എന്ന് പറയട്ടെ എനിക്ക് ഒരു കൂട്ടം ഇൻപുട്ട് ഡാറ്റയുണ്ട് ഞാൻ I1I2I3 അവ ഓരോന്നായി പ്രയോഗിക്കുന്നു എനിക്ക് O1O2 O3 ഔട്ട്പുട്ടുകൾ ലഭിക്കും ഇൻപുട്ടുകളുടെ n എണ്ണം ഉണ്ടെങ്കിൽ മൊത്തം സമയം n നെ T കൊണ്ട് ഗുണിക്കും ഇപ്പോൾ പൈപ്പ്ലൈനിംഗ് എന്ന ആശയം പറയുന്നത് ഞാൻ ഈ കമ്പ്യൂട്ടേഷൻ T യെ പല ഭാഗങ്ങളായി വിഭജിക്കുന്നു എന്നാണ് സമയത്തെ സംബന്ധിച്ചിടത്തോളം അവയുടെ എല്ലാ വലുപ്പവും തുല്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം അതായത് അവ തുല്യ സമയമെടുക്കുന്നു എന്നാണ് സ്റ്റേജുകളുടെ എണ്ണം k ആണെന്ന് പറയട്ടെ ഞാൻ T1 T2 T3 Tk എന്നിങ്ങനെ വിഭജിക്കുന്നു ഒരു പൈപ്പ്ലൈനിംഗിനായി ഞങ്ങൾക്ക് ഇതുപോലുള്ള ചില രജിസ്റ്റർ ചെയ്ത സ്റ്റേജ്സ് ആവശ്യമാണ് അതിനാൽ ഡാറ്റ ഒരു അറ്റത്ത് നൽകപ്പെടും അവർ ഇതുപോലെ പോകും ഇപ്പോൾ അടിസ്ഥാന ആശയം ഈ ഇൻപുട്ട് I1 വരുമ്പോൾ ആദ്യം I1 T1 ലേക്ക് വരും അത് എക്സിക്യൂട്ട് ചെയ്യും എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം T1 അവസാനിക്കും അതിനാൽ ഈ I1 റിസൾട്ട് T2 ലേക്ക് പോകും ഇപ്പോൾ T1 ന് I2 ൽ ആരംഭിക്കാം തുടർന്ന് I1 അടുത്ത സ്റ്റെപ് T3 ലേക്ക് പോകും തുടർന്ന് I2 ഇവിടെയും I3 ഇവിടെയും വരും അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്ത എക്സിക്യൂഷൻ ലഭിക്കും അതിനാൽ n വലുതായിരിക്കുമ്പോൾസ്റ്റേജുകളുടെ എണ്ണത്തിന് തുല്യമായ k ന് ഏകദേശം തുല്യമായ വേഗത നമുക്ക് ലഭിക്കും അതിനാൽ പൈപ്പ്ലൈനിംഗ് ഉപയോഗിച്ച് നമുക്ക് വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും ഓരോ യൂണിറ്റ് സമയത്തിനും കൂടുതൽ കംപ്യുറ്റേഷൻ നടത്താം എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പവർ കൺസംപ്ഷനെ സംബന്ധിച്ചാണ് നമുക്ക് ഇതുപോലൊരു സാഹചര്യം സങ്കൽപ്പിക്കാം ഞങ്ങളുടെ സമയപരിധി പാലിക്കാൻ പര്യാപ്തമായ ഒരു സർക്യൂട്ട് ബ്ലോക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു അത് വേഗത്തിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾ അതിനെ ഒരു പൈപ്പ്ലൈനിൽ 2 ഭാഗങ്ങളായി അല്ലെങ്കിൽ പൊതുവെ k ഭാഗങ്ങളായി വിഭജിക്കുന്നുവെന്ന് കരുതുക ഞങ്ങൾ അത് ഒരു പൈപ്പ്ലൈനാക്കുന്നു അതിനാൽ ഞങ്ങൾ ഇത് ഒരു പൈപ്പ്ലൈനാക്കിയാൽ അത് വേഗത്തിൽ പ്രവർത്തിപ്പിക്കാം പക്ഷേ വേഗത്തിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല അതിനാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഒരു പൈപ്പ്ലൈൻ സൃഷ്ടിക്കുന്നു പക്ഷേ നിങ്ങൾ പൈപ്പ്ലൈൻ പ്രവർത്തിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ ഫ്രീക്വൻസിയിലാണ് അതായത് എന്റെ ഓവർ ഓൾ ത്രൂപുട്ട് ഒറിജിനൽ പോലെ തന്നെ തുടരും എന്നാൽ എന്റെ ശരാശരി പവർ കൺസംപ്ഷൻ ഗണ്യമായി കുറയുന്നു ഇതാണ് അടിസ്ഥാന ആശയം ഞങ്ങൾ പൈപ്പ് ലൈൻ സ്റ്റേജ്സ് ലളിതമാക്കുന്നു നിങ്ങൾ ഒരു കംപ്യൂട്ടേഷനെ ലളിതമായ സബ് കമ്പ്യൂട്ടേഷനായി വിഭജിക്കുന്നത് പോലെ ഈ ഓരോ സ്റ്റേജിലും നമുക്ക് ഫ്രീക്വൻസി കുറയ്ക്കാം അല്ലെങ്കിൽ വോൾട്ടേജ് പവർ സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കാം അതിനാൽ പവർ കൺസംപ്ഷൻ കുറയ്ക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗമാണ് വൈദ്യുതി വിതരണ വോൾട്ടേജ് കുറയ്ക്കൽ കാരണം ഡൈനാമിക് പവർ വോൾട്ടേജിന്റെ ഈ സ്ക്വയറിനു ആനുപാതികമാണെന്ന് നിങ്ങൾ ഓർക്കു ന്നില്ലേ അതിനാൽ വ്യത്യസ്ത പൈപ്പ്ലൈൻ സ്റ്റേജ്സ് നിങ്ങൾക്ക് വൈദ്യുതി വിതരണ വോൾട്ടേജ് കുറയ്ക്കാനും അത് അൽപ്പം മന്ദഗതിയിലാക്കാനും തീർച്ചയായും വൈദ്യുതി ഉപഭോഗം വലിയ അളവിൽ കുറയ്ക്കാനും കഴിയും ഇത് ഒരു പ്രത്യേക ഉദാഹരണം മാത്രമാണ് ഇത് ഒരു പ്രത്യേക കേസ് സ്റ്റഡി ആണ് യഥാർത്ഥ വോൾട്ടേജുമായി ബന്ധപ്പെട്ട് വോൾട്ടേജ് 1 83 മടങ്ങ് കുറഞ്ഞു അത് 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ അത് ഇതുപോലെയായിരുന്നു ഒരു മൾട്ടിപ്ലയർ ഉണ്ടായിരുന്നു ഞങ്ങൾ മൾട്ടിപ്ലയറിനെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു ആദ്യ പകുതിയും രണ്ടാം പകുതിയും 2 സ്റ്റേജ് പൈപ്പ്ലൈനിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരേ ഫ്രീക്വൻസിയിൽ പൈപ്പ്ലൈൻ പ്രവർത്തിപ്പിക്കുന്നു എന്നാൽ തുടക്കത്തിൽ വോൾട്ടേജ് Vref ആയിരുന്നു ഇപ്പോൾ അത് V ref ബൈ 1 83 ആയി മാറി അതിനാൽ നിങ്ങൾ ഈ പുതിയ പൈപ്പ്ലൈനിനായുള്ള പവർ കൺസംപ്ഷൻ കണക്കാക്കുകയാണെങ്കിൽ പുതിയ ഡിസൈൻ വൈദ്യുതി ഉപഭോഗം യഥാർത്ഥ വൈദ്യുതി ഉപഭോഗത്തിന്റെ ഏകദേശം 36 ശതമാനമായിരുന്നു ഇത് വോൾട്ടേജിന്റെ സ്ക്വയറായതിനാൽ വോൾട്ടേജിന്റെ സ്ക്വയറിന് ആനുപാതികമായതിനാൽ നിങ്ങൾ ഈ വോൾട്ടേജ് കുറയ്ക്കുന്നു ഇതാണ് ശരിയായ ആശയം അതിനാൽ പൈപ്പ്ലൈനിൽ ഞങ്ങൾ ഒരു ഒരു കംപ്യൂട്ടേഷനെ സബ് കമ്പ്യൂട്ടേഷനായി വിഭജിക്കുന്നു ഈ ഘട്ടങ്ങളിലെ വൈദ്യുതി വിതരണ വോൾട്ടേജ് ഞങ്ങൾ കുറയ്ക്കുന്നു അങ്ങനെ അവയുടെ മൊത്തത്തിലുള്ള പവർ കൺസംപ്ഷൻ കുറയ്ക്കുന്നു റീടൈമിംഗ് എന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ് എന്നാൽ ഒരു ഡിസൈനിന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന റീടൈമിംഗ് ആണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് പവർ ഡിസ്പേഷൻ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള റീടൈമിംഗിനെക്കുറിച്ചാണ് അതിനാൽ ഇവിടെ ഞങ്ങൾ ഒരു പൈപ്പ് ലൈൻ ഡിസൈനിനായി റീടൈമിംഗ് നോക്കുകയും ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ച് ഗേറ്റ് ലെവൽ ഡിസൈനിനായി റീടൈമിംഗ് നടത്തുകയും ചെയ്യും നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഇവിടെ നിങ്ങൾ ഇതുപോലൊരു പൈപ്പ് ലൈൻ നോക്കൂ 2 രജിസ്റ്ററുകൾ ഉണ്ട് 6 നാനോ സെക്കൻഡുകളുടെയും 2 നാനോ സെക്കൻഡുകളുടെയും ആകെ 8 ഡിലെകൾക്കിടയിൽ ചില കോമ്പിനേഷൻ സർക്യൂട്ടുകൾ ഉണ്ട് ഇവിടെ അത് 4 ആണ് അതിനാൽ ഈ പൈപ്പ്ലൈനിൽ ക്ലോക്ക് ഫ്രീക്വൻസി സമയപരിധി കുറഞ്ഞത് 8 നാനോ സെക്കൻഡ് ആയിരിക്കണം കൂടാതെ തീർച്ചയായും ഈ രജിസ്റ്റർ ഡിലെ സെറ്റപ്പ് ഹോൾഡ് സമയം എന്നിവയെല്ലാം ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് C2 മാറ്റാനോ നീക്കാനോ കഴിയുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പൈപ്പ് ലൈൻ 6 നാനോ സെക്കൻഡും 6 നാനോ സെക്കൻഡും സമതുലിതമാകും ഇപ്പോൾ ഞാൻ പറയുന്നത് പൈപ്പ് ലൈൻ വേഗത്തിലാക്കുക എന്നതല്ല ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം എന്റെ സമയ ആവശ്യകത നിറവേറ്റാൻ പര്യാപ്തമായ ഇത്തരമൊരു ഡിസൈൻ ഇതിനകം എനിക്കുണ്ടായിരുന്നുവെന്ന് കരുതുക ഇത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഞങ്ങൾ ചുറ്റിക്കറങ്ങുകയാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയുന്നു എന്നാൽ ഈ 8 നാനോ സെക്കൻഡ് ഞങ്ങൾക്ക് മതിയാകും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് 6 നാനോ സെക്കൻഡ് കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് എന്തുചെയ്യാൻ കഴിയും ഈ ബ്ലോക്കുകളിലെ എന്റെ പവർ സപ്ലൈ വോൾട്ടേജുകൾ വീണ്ടും കുറയ്ക്കാൻ കഴിയും അതുവഴി ഞാൻ ഈ ബ്ലോക്കുകൾ അൽപ്പം മന്ദഗതിയിലാക്കുന്നു അതുവഴി വീണ്ടും എനിക്ക് 8 നാനോ സെക്കൻഡ് സമയം നേടാൻ കഴിയും ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ആശയം എന്റെ പൈപ്പ്ലൈൻ കൂടുതൽ കാര്യക്ഷമമാക്കാൻ റീടൈം ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ സമയ ആവശ്യകത പുനഃസ്ഥാപിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ മതിയാകും പവർ സപ്ലൈ കുറച്ചുകൊണ്ട് ഞാൻ ബ്ലോക്കുകൾ മന്ദഗതിയിലാക്കുന്നു ഞാൻ അത് ആക്കുകയാണെങ്കിൽ എന്റെ പവറും കുറയും ഇതാണ് ആശയം ഗേറ്റ് ലെവൽ ഡിസൈനിനായി ഞാൻ കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം ഒരു ഗേറ്റ് ലെവൽ ഡിസൈൻ ഇവിടെ ഉണ്ടെന്ന് കരുതുക ചില ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പും ഉള്ള ചില ഗേറ്റുകൾ ഉണ്ട് ഇടയിൽ 4 ഗേറ്റ് ഡിലെ ഉണ്ട് ഈ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ നീങ്ങി അത് ഇവിടെ സ്ഥാപിക്കുക അതിനാൽ ഇപ്പോൾ 2 ഉം ആയി മാറുന്നു തുടക്കത്തിൽ ക്ലോക്ക് സൈക്കിൾ 4 ഗേറ്റ് ഡിലെയായിരുന്നു എന്നാൽ ഇപ്പോൾ ക്ലോക്ക് സൈക്കിൾ 2 ഗേറ്റ് ഡിലെയാണ് വീണ്ടും അതേ കാര്യം ഇപ്പോൾ ക്ലോക്ക് വേഗത്തിലാക്കാം എന്നാൽ സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കുന്നതിലൂടെ ഈ സർക്യൂട്ടുകൾ മന്ദഗതിയിലാക്കാം നിങ്ങൾക് നിരവധി മാർഗങ്ങളുണ്ട് കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് പവർ ഡിസ്പേഷൻ പ്രത്യേകിച്ച് ഡൈനാമിക് പവർ ഡിസ്പേഷൻ വോൾട്ടേജിന്റെ ഈ സ്ക്വയറിന് ആനുപാതികമാണ് അത് ഫ്രീക്വൻസിക്ക് ആനുപാതികമാണ് നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടുകയും വോൾട്ടേജ് കുറയ്ക്കുകയും ചെയ്താൽ ഈ കുറവിന്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും കാരണം അത് അതിന്റെ സ്ക്വയറിന് ആനുപാതികമാണ് അതിനാൽ നിങ്ങൾ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുക എന്നതാണ് ആശയം എന്നാൽ ഫ്രീക്വൻസി വർദ്ധിക്കുന്നത് പവർ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ അതേ സമയം നിങ്ങൾ വോൾട്ടേജ് കുറയ്ക്കുന്നു വോൾട്ടേജ് കുറയുന്നത് പവറിനെ കൂടുതൽ ബാധിക്കും അതിനാൽ നിങ്ങളുടെ ഡൈനാമിക് പവർ ഡിസിപ്പേഷൻ കുറയും ഇതാണ് അടിസ്ഥാന ആശയം കൊള്ളാം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന അവസാന രീതി വളരെ രസകരമാണ് ഇത് ബസിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഒരു ബസ് സെഗ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ബസ് എന്താണെന്ന് ഞങ്ങൾ കാണുന്നു പല ഡിസൈനുകളിലും പ്രത്യേകിച്ച് ഒരു പ്രോസസർ പോലുള്ള സങ്കീർണ്ണമായ ഡിസൈൻ അവിടെ ധാരാളം ഫങ്ഷണൽ ബ്ലോക്കുകൾ ഉണ്ട് അവർ പരസ്പരം ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഒരു ബസ് നിർവചിക്കുന്നു ഒന്നിലധികം ബ്ലോക്കുകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയുന്ന പൊതുവായ പങ്കിട്ട സെറ്റ് ഓഫ് ലൈനുകളാണ് ബസ് ഇപ്പോൾ ഒരു സിപിയുവിൽ നിങ്ങൾ ഒരു പ്രോസസറിൽ അറിയുന്നുണ്ടാകാം അവ രജിസ്റ്ററുകൾക്കും ALU കൾക്കും ALU കൾക്കും മെമ്മറിക്കും ഇടയിൽ ഒന്നോ അതിലധികമോ ബസുകളായിരിക്കാം അങ്ങനെ ബസുകൾ നിരവധി ഫങ്ഷണൽ യൂണിറ്റുകളിലേക്ക് കണക്റ്റുചെയ്തിരിക്കുകയും അവ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ അപ്പ്രോച്ചിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ബസ്സുകളിലേക്ക് നോക്കുന്നു ഒരു ബസിലേക്ക് നോക്കു ഒരു ബസിനെ നമുക്ക് ഒരു കൂട്ടം ലളിതമായ ബസുകളായി വിഭജിക്കാൻ കഴിയുമോ എന്ന് നോക്കുക ഇതാണ് അടിസ്ഥാന ആശയം അതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിനെ ബസ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ റിസോഴ്സ്സ് പങ്കിടുന്നത് പരമാവധി ഒഴിവാക്കാൻ ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു ഞാൻ ഇത് വിശദീകരിക്കും ഇത് ചെറിയ സ്വിച്ച് കപ്പാസിറ്റൻസിലേക്ക് നയിക്കും കാരണം ഫാൻ ഔട്ട് കുറയുന്നു ഞാൻ ഇത് ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം ഞങ്ങൾ എടുക്കുന്ന ഉദാഹരണം ഞങ്ങൾ 2 ഇതരമാർഗങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു ആദ്യ ബദൽ പറയുന്നത് ഞങ്ങൾക്ക് ഒരൊറ്റ ഷെയേർഡ് ബസ് എല്ലാ മൊഡ്യൂളുകളുമായും ബന്ധിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ ബസ് ഇത് ഒരു വലിയ ബസ് കപ്പാസിറ്റൻസിന് കാരണമാകും കാരണം ഓരോ മൊഡ്യൂളുകൾക്കും അവർ ഒരു ഡ്രൈവറും റിസീവറും ആയിരിക്കും കൂടാതെ ഒരു ബസ് ആയതിനാൽ ബസിന്റെ നീളം വളരെ നീണ്ടതായിരിക്കും ഇത് വലിയ പാരാസൈറ്റിക് കപ്പാസിറ്റൻസിന് കാരണമാകും രണ്ടാമത്തെ ബദൽ പറയുന്നത് നിങ്ങൾ ഈ ബസിനെ 2 ചെറിയ ബസുകളായി വിഭജിച്ചു എന്നാണ് അതിനാൽ ബസ് കപ്പാസിറ്റൻസ് കുറയുകയും ഡ്രൈവർമാരും റിസീവറുകളും 1 ബസ് പങ്കിടുകയും ചെയ്യും അതിനാൽ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ ഇത് വിശദീകരിക്കാം ഇതുപോലുള്ള ഒരു സാഹചര്യം എടുക്കുക നിങ്ങൾ ആദ്യം കാണുന്നത് ഈ സോളിഡ് ലൈൻ സൂചിപ്പിക്കുന്ന ഒരു ബസ് ആണ് ബസ് പങ്കിടുന്ന 8 മൊഡ്യൂളുകൾ ഉണ്ട് ഡ്രൈവർമാരും റിസീവറുകളും ഉണ്ട് എല്ലാ മൊഡ്യൂളുകളുമായും ഡ്രൈവറുകളും ബഫറുകളും അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ പ്രത്യേക മൊഡ്യൂൾ ഈ മൊഡ്യൂളിലേക്ക് കുറച്ച് ഡാറ്റ അയയ്ക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഈ ഡ്രൈവർ സജീവമാക്കുകയും ഈ റിസീവർ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യും അതിനാൽ ഈ ബസ് എല്ലാ മൊഡ്യൂളുകളും പങ്കിടുന്നു ഇപ്പോൾ സ്വാഭാവികമായും ബസിന്റെ നീളം മതിയാകും കാരണം ഈ 8 മൊഡ്യൂളുകളും ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇത് ഇതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു യഥാർത്ഥ ലേഔട്ടിൽ അവ ഒന്നിനുപുറകെ ഒന്നായി നീളത്തിൽ സ്ഥാപിക്കാം ഒരു യഥാർത്ഥ ലേഔട്ടിൽ ബ്ലോക്കുകൾ ഒന്നിനു താഴെ മറ്റൊന്നായി സ്ഥാപിക്കാൻ കഴിയില്ല മറ്റൊരു കാര്യം നിങ്ങൾ ഒരു പ്രത്യേക ബ്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഡ്രൈവറിന്റെ ഔട്ട്പുട്ട് നിരവധി ബഫറുകൾ 1 2 3 4 5 6 7 കൂടാതെ 8 തന്നെയും ഡ്രൈവ് ചെയ്യുന്നു അതിനാൽ ഫാൻ ഔട്ട് 8 ശരിയാണ് കാരണം ബസുകൾ നീളമുള്ളതാണ് അതിനാൽ സി ബസ് പോലെയുള്ള പാരാസൈറ്റിക് കപ്പാസിറ്റൻസുകൾ ഇതര രൂപകൽപ്പനയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് ഈ ബസ് ഞങ്ങൾ 2 ബസുകളായി വിഭജിക്കുന്നു എന്നാണ് ആദ്യത്തെ ബസുകൾ ഈ ആദ്യത്തെ 4 നെ മാത്രം ബന്ധിപ്പിക്കുന്നു രണ്ടാമത്തെ ബസ് ഇവയെ ബന്ധിപ്പിക്കുന്നു തീർച്ചയായും ബസുകൾക്കിടയിൽ ആവശ്യമുള്ളപ്പോഴെല്ലാം ആശയവിനിമയം നടത്താൻ ഒരു ഇന്റർഫേസ് ഉണ്ട് അതിനാൽ വ്യക്തമായും ഡാറ്റ ട്രാൻസ്ഫർ ആവശ്യകതകൾ നോക്കി ഞങ്ങൾ ഈ ബസ് പാർട്ടീഷനിംഗ് നടത്തും അതിനാൽ നടക്കുന്ന മിക്ക ഡാറ്റാ ട്രാൻസ്ഫറുകളും ഒരു ബസിൽ ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ബസുകൾക്കിടയിൽ ഡാറ്റാ ട്രാൻസ്ഫറുകളുടെ എണ്ണം കുറവായിരിക്കും എന്നതാണ് ആശയം ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ആദ്യം കാര്യം ഓരോ ബസിന്റെയും വലിപ്പമോ നീളമോ കുറവായിരിക്കും കാരണം അത് കുറച്ച് മൊഡ്യൂളുകളെ ബന്ധിപ്പിക്കും അതിനാൽ വ്യക്തിഗത പാരാസൈറ്റിക് കപ്പാസിറ്റൻസുകൾ സി ബസിനേക്കാൾ വളരെ കുറവായിരിക്കും രണ്ടാമതായി ഇപ്പോൾ ഓരോ ഡ്രൈവറും നേരത്തെ ഇത് 8 ലോഡ് ഓടിച്ചിരുന്നു ഒരു ഫാനൌട്ട് 8 ആയിരുന്നു ഇപ്പോൾ ഇതിന് 4 ന്റെ ഫാനൌട്ടും ഈ ബസ് ഇന്റർഫേസും വളരെ കുറവാണ് അതിനാൽ പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് കുറവായിരിക്കും സി കുറവായിരിക്കും അതിനാൽ ഇത്തരത്തിലുള്ള ലളിതമായ പാർട്ടീഷനിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നമുക്ക് പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് മാത്രമല്ല ലോഡ് കപ്പാസിറ്റൻസും കുറയ്ക്കാൻ കഴിയും അതുവഴി ഡൈനാമിക് സ്വിച്ചിംഗ് പവർ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയും പവർ കുറയ്ക്കുന്നതിനുള്ള വളരെ സാധാരണയായി ഉപയോഗിക്കുന്നതും ജനപ്രിയവുമായ സാങ്കേതികതകളിൽ ഒന്നാണിത് ഇപ്പോൾപവർ കുറയ്ക്കുന്നതിനുള്ള നിരവധി ആർക്കിടെക്ചർ ലെവൽ ടെക്നിക്കുകൾ ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ അൽഗോരിതമിക് ടെക്നിക് നോക്കാം അൽഗോരിതം ടെക്നിക് എന്നാൽ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആർക്കിടെക്ചർ ഇല്ല ഞങ്ങൾ ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടില്ല അതിനാൽ ഒരു അൽഗോരിതമിക് തലത്തിലോ ബിഹേവിയർ തലത്തിലോ പോലും നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ് അത് ആത്യന്തികമായി പവർ കുറയ്ക്കുന്നതിന് കാരണമാകും അവ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ നോക്കുകയും വിശദീകരിക്കുകയും ചെയ്യും അതിനാൽ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം